എല്ലാവരെയും സെൽ കൾച്ചർ ടെക്നോളജിയുടെ അധ്യയന പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ നമ്മുടെ മൂന്നാം വാരത്തിൽ എന്താണ് പഠിക്കാൻ പോകുന്നത് രണ്ടാം വാരത്തിൽ നമ്മൾ ഒരു മാതൃകാ രൂപരേഖ തയ്യാറാക്കിയിരുന്നു നിങ്ങൾക്കിപ്പോൾ ഒരു വ്യവസായ മേഖലയിൽ ജോലി കിട്ടുകയാണെങ്കിൽ അവിടുത്തേക്കു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടിവരും ആ സമയം നിങ്ങൾ എങ്ങനെ മുന്നോട്ടു പോകും ഇതിനുവേണ്ടി പുസ്തകത്തിൽ ഇല്ലാത്ത എന്തൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് അതിലൊന്നാണ് പരീക്ഷണശാലയെ രണ്ടായി ഭാഗിക്കുക എന്നത് അവിടെ ശാസ്ത്രീയമായി ജീവജാലങ്ങളെ ഖണ്ഡിക്കുന്നത് ഒരു ഭാഗത്തേക്ക് ആയി മാറ്റിയിരിക്കുന്നു കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ സൂക്ഷ്മജീവികൾ മലിനീകരണം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതേസമയം യഥാർത്ഥ കൾച്ചർ ജോലികൾ അടുത്ത ഭാഗത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഇത് വായിച്ചപ്പോൾ പരീക്ഷണശാലയെ രണ്ടായി വിഭാഗിച്ചതിനെക്കുറിച്ച് ഓർമ വന്നല്ലോ ഇപ്പോഴത്തെ പുതിയ പരീക്ഷണശാലകളിൽ കർശനമായി പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് അവിടത്തേക്ക് പ്രത്യേകമായി പാദരക്ഷകൾ ഉപയോഗിക്കുക എന്നത് ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പാദരക്ഷകൾ സൂക്ഷിക്കാനുള്ള ഇടം അവിടെ സജ്ജീകരിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പാദരക്ഷകൾ ഇവിടേക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കേണ്ടതാണ് പിന്നെ നിങ്ങൾക്ക് ഇതും ഓർമ്മയുണ്ടാവും എങ്ങനെയാണ് ഒരു പരീക്ഷണശാലയുടെ ഉള്ളിലേക്ക് കടക്കേണ്ടത് എന്ന് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മേഖലയിലേക്ക് കടക്കുകയാണ് എന്ന് കരുതുക അവിടെ നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കുന്ന ചവിട്ടുമെത്തകൾ വെക്കേണ്ടിവരും ഇതിലേക്ക് കാലു വെക്കുമ്പോൾ അത് ചെറുതായി ഒട്ടിപിടിക്കും അപ്പോൾ കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടികൾ അതിലേക്ക് പിടിക്കും അതുകാരണം അകത്തേക്ക് കയറുമ്പോൾ ആദ്യമുണ്ടായിരുന്ന പൊടിയുടെ അളവ് കുറയ്ക്കാൻ ഈ സംവിധാനം സഹായിക്കും ഇവിടെയുള്ള മിക്ക മുറികളിലും വായുവിനെ അകത്തു നിന്ന് പുറത്തേക്ക് സ്ഥിരമായി തള്ളി വിടുന്ന രീതിയിൽ ആണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇത് ഉറപ്പിക്കാനായി ഈ രണ്ട് മുറികളിൽ ഉള്ള വായുവിനെ സ്ഥിരമായി പുറത്തേക്ക് തള്ളുകയും അതിനാൽ വായുവിന് ചുറ്റി സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ വായുവിനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു ഇതിലൂടെ നമുക്ക് കപട മേൽക്കൂരയുടെ ആവശ്യം കൂടി ഉണ്ടാകുന്നു അപ്പോൾ ഈ കപട മേൽക്കൂരയുടെ മുകളിലായി വായുവിന് വേണ്ടിയുള്ള പ്രത്യേക സജ്ജീകരണം തയ്യാറാക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ പ്രധാനമായും മനസ്സിൽ ഓർത്തു വെച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി നിങ്ങൾക്ക് നിങ്ങളുടെ എൻജിനീയറിങ് കലാലയത്തിലെ സഹപ്രവർത്തകരോട് അല്ലെങ്കിൽ നിങ്ങളുമായി താരതമ്യം ഉള്ള ജോലി ചെയ്യുന്ന മറ്റു വകുപ്പിൽ ഉള്ളവരോട് ചോദിക്കാവുന്നതാണ് ഉദാഹരണം ഈ കപട മേൽക്കൂര ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ നിൽക്കുന്ന ഈ മുറിയിൽ ഒരു കപട മേൽക്കൂര ഉണ്ട് നിങ്ങൾ എന്തായാലും കപട മേൽക്കൂരയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഇവിടെ ഇതാണ് ഈ മുറിയുടെ ഉയരം ഇവിടെ നമ്മൾ ഒരു കപട മേൽക്കുര സൃഷ്ടിക്കാനായി ഒരുതരം പോളിമർ അവർക്ക് ഉപയോഗിക്കേണ്ടിവരുന്നു ഇവിടെ ഒരു അകലം ബാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് അനുസരിച്ചുള്ള അകലം കുഴലുകൾക്ക് വേണ്ടിയുള്ള ദ്വാരങ്ങൾ വെക്കുന്നു വായു അതിലൂടെ പുറത്തു പോവുകയും ചെയ്യുന്നു അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുന്നു സംഭരണികൾ സമയാസമയങ്ങളിൽ നിറച്ചു വയ്ക്കേണ്ടതാണ് എന്ന് ഇനി നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ പച്ചനിറത്തിൽ കാണിക്കാൻ പോകുന്നു അത് ഇവിടുന്ന് തുടങ്ങി ഇവിടെയെത്തുന്നു കാരണം നിങ്ങൾ മുറിയെ രണ്ടായി വിഭാഗിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒട്ടിപ്പിടിക്കുന്ന ചവിട്ടുമെത്ത ഇടാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ഒരു നിയന്ത്രണ മേഖല കൂടി സൃഷ്ടിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തള്ളിനീക്കാൻ പറ്റുന്ന വാതിലുകൾ ഘടിപ്പിക്കാവുന്നതാണ് ഇത് അകത്തേക്ക് വരുന്നതിനും പുറത്തേക്ക് പോകുന്നതിനും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നു ഇവിടെ നിങ്ങൾക്ക് ഇനി ഒരു റഫ്രിജറേറ്റർ ഈ മൂലയിൽ വെക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് റഫ്രിജറേറ്ററുകളുടെ ആവശ്യം വരും കാരണം നിങ്ങൾക്ക് മീഡിയം എല്ലാം ഇവിടെ സൂക്ഷിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഒരു റഫ്രിജറേറ്റർ ഈ മൂലയിൽ ഇരിക്കുന്നതായി സങ്കൽപ്പിക്കാം പിന്നെ കൂടുതലും മൂലകൾ ഉപയോഗിക്കാൻ നോക്കുക കാരണം അതിലൂടെ നമുക്ക് സ്ഥലം ഒരുപാട് ലാഭിക്കാൻ കഴിയും പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു രൂപരേഖ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റഫ്രിജറേറ്റർ ഇവിടെ വയ്ക്കാം ഇവിടെയുള്ള കൌണ്ടർ ടോപ്പിന്നെ മുറിച്ചു കളഞ്ഞാൽ റഫ്രിജറേറ്റർ വെക്കാൻ ഉള്ള സ്ഥലം ഇവിടെ ഉണ്ടാകും അതിലൂടെ നിങ്ങൾ ഒരുപാട് സ്ഥലം വിനിയോഗിക്കുന്നില്ല അങ്ങനെ ഒരു റഫ്രിജറേറ്റർ ഇവിടെ വെക്കാൻ സാധിക്കും ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു തള്ളിനീക്കുന്ന വാതിൽ വേണ്ട എന്നാണെങ്കിൽ ഒരു വിൻഡ് കർട്ടൻ ഇവിടെ വയ്ക്കാവുന്നതാണ് ഇനി നിങ്ങൾ വളരെ സൂക്ഷിക്കണം ഈ മേഖലയിലാണ് നിങ്ങളുടെ ജോലി നടക്കുന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു ഇങ്കുബേറ്ററുകൾ ഈ മൂലകളിൽ ആണ് വയ്ക്കുക എന്നത് ഇത് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നടന്നുപോകുന്ന പാതയില് ഇത് തടസ്സമായി വരില്ല പിന്നെ നിങ്ങൾക്ക് ലാമിനാർ ഫ്ലോ ഹുഡ് ആവശ്യം വരും നിങ്ങൾക്ക് ഒന്നും രണ്ടും ലാമിനാർ ഫ്ലോ ഹുഡുകൾ ഇതുപോലെ വെക്കാം ഇപ്പോൾ നിങ്ങളുടെ ഈ കൌണ്ടർ ടോപ് ഈ കൌണ്ടർ ടോപ്പിൻറെ അടുത്തു കൂടെ പോകുന്നു പക്ഷേ നിങ്ങൾക്ക് അതിൻറെ വാതിൽ തുറക്കുമ്പോൾ തടസ്സം ഉണ്ടാവാതിരിക്കാൻ നോക്കേണ്ടതാണ് അത് ഇങ്കുബേറ്റർ വാതിൽ എങ്ങോട്ടാണ് തുറക്കുന്നത് എന്നതിനെ അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ലാമിനാർ ഫ്ലോ ഹുഡ് ഇവിടെയുണ്ട് ഇവിടെനിന്ന് മറ്റൊരു സംഭവം കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഞാൻ ഇവിടെ ഒറ്റവര വരയ്ക്കുകയാണ് നിങ്ങൾ പ്രവേശിക്കുന്നതും കടന്നു പോകുന്നതും കാണിക്കാൻ വേണ്ടി ഇവിടെ നിങ്ങൾ ഒരു ഭിത്തി ഉണ്ടെന്നു സങ്കൽപ്പിക്കുക അത് സ്ഫടികത്തിന്റെയും ആകാം ഇത് ഇവിടെ ഒരു തടസ്സമുണ്ടാക്കി വയ്ക്കുന്നു ഇവിടെ ഞാൻ ഒരു യന്ത്രത്തിൻറെയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വെക്കുന്നില്ല കാരണം അത് വായു സഞ്ചാരത്തിന്റെ ഇടയ്ക്ക് വരും ഇത് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക ഒന്നിനെയും ഇതിൻറെ വഴിയിൽ വെക്കാതിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും ഉപദേശിക്കപ്പെടുന്ന ഒരു കാര്യമാണ് എവിടെയെങ്കിലും ചുരുക്കുക എന്നതും മൊത്തത്തിൽ ചുരുക്കുക എന്നുള്ളതും ഇപ്പോൾ ലാമിനാർ ഫ്ലോ ഹുഡ് ഇവിടെയുണ്ട് നിങ്ങളുടെ കൌണ്ടർ ടോപ്പും ഇവിടെയുണ്ട് ഞാൻ ഇതിനെ കറുത്ത നിറം കൊണ്ട് അടയാളപ്പെടുത്തുന്നു അതുകൊണ്ട് കൌണ്ടർ ടോപ്പിന്റെ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ബാക്കിയുള്ള ആവശ്യത്തിനായി ഉണ്ട് അടുത്തത് നിങ്ങൾക്ക് ഒരു നല്ല കോമ്പൌണ്ട് മൈക്രോസ്കോപ് പരീക്ഷണശാലയിലേക്ക് ആവശ്യമുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾക്ക് കുറച്ച് കൂടുതൽ ചർച്ച ചെയ്യാം ആദ്യം നമുക്ക് ഇതിൻറെ ഉപയോഗത്തെക്കുറിച്ച് കടക്കാം നമ്മളിവിടെ പാലിക്കേണ്ടത് എന്താണ് എന്നൊക്കെ നമ്മൾ നൈട്രജൻ സംഭരണികളിൽക്കുറിച്ചും മറ്റും പറഞ്ഞിരുന്നല്ലോ നിങ്ങൾക്ക് ഒരു സംഭരണ മേഖല ആവശ്യമാണ് ഉദാഹരണത്തിന് സെൽ ലൈൻ സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സംഭരണ മേഖലകൾ ആവശ്യമാണ് അതിനെ അടയാളപ്പെടുത്തുന്നു അപ്പോൾ നിങ്ങൾക്ക് സെൽ ലൈൻ സൂക്ഷിക്കാനുള്ള മേഖലയായി കഴിഞ്ഞു ഇത് ഒരു സംഭരണിയാണ് നിങ്ങൾ ഇത് തുറക്കുമ്പോൾ സമയാസമയങ്ങളിൽ നൈട്രജൻ വെച്ച് നിറയ്ക്കേണ്ടത് ആകുന്നു നിങ്ങളിനി സെൽ ലൈൻ കൾച്ചറോ പ്രൈമറി കൾച്ചറോ ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം പ്രധാനമായി ശ്രദ്ധിക്കണം നിങ്ങൾ കോശങ്ങളെ നിരീക്ഷിക്കണം അതിനെ പസാജ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പ്ലേറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ കോശങ്ങളുടെ സമയം നോക്കേണ്ടതാണ് ഇതിനായി നിങ്ങൾക്ക് ഒരു മൈക്രോസ്കോപ്പ് ആവശ്യമാണ് ഞാൻ നിങ്ങളോട് മുൻപ് പറഞ്ഞ അതേ യുക്തി തന്നെ ഉപയോഗിക്കാൻ പറയുന്നു ഇവിടെ നിങ്ങൾ വേറൊന്നും ഇടയ്ക്ക് വരാതെ നോക്കേണ്ടതാണ് കാരണം നിങ്ങൾ നോക്കുന്നത് കോശങ്ങളെയാണ് അതുകൊണ്ട് ഇത് ഇടയ്ക്ക് വരാൻ പാടില്ല നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഉള്ള സ്ഥലങ്ങൾ ഈ കൌണ്ടർ ടോപ്പിൽ ഇവിടെയോ അല്ലേൽ ഈ ബത്തിയുടെ അടുത്തോ അല്ലെങ്കിൽ ഈ ബത്തിയുടെ അല്ലെങ്കിൽ ആ ബത്തിയുടെ അടുത്തോ ആണുള്ളത് പക്ഷേ എനിക്ക് നിങ്ങളോട് എവിടെയൊക്കെ വിസ്തൃതം ആക്കണമെന്ന് പറയാൻ സാധിക്കില്ല നിങ്ങൾക്ക് മൈക്രോസ്കോപ്പിനെ സ്ഥാപിക്കേണ്ടതുണ്ട് ഈ മൈക്രോസ്കോപ്പ് കോമ്പൌണ്ട് ആയിരിക്കാം നിങ്ങൾക്ക് ഇതിലേക്ക് ഫ്ലൂറസെന്റിനെ കൂടി ഘടിപ്പിക്കാവുന്നതാണ് അതുകൊണ്ട് ഇതിനെല്ലാം യോജിപ്പിച്ച് വെക്കേണ്ടത് നിങ്ങളുടെ ആവശ്യത്തിനും യുക്തിക്കുമായി ഞാൻ വിട്ടു തന്നിരിക്കുന്നു കാരണം ആ തീരുമാനം ഫ്ലൂറസെന്റിനെ നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ എടുക്കാൻ കഴിയു പക്ഷേ ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കോശങ്ങളിൽ പ്ലേറ്റ് ചെയ്യുന്നതാണ് മുഖ്യമായ കാര്യം അത് പ്രധാനപ്പെട്ടത് ആയത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സബ്സ്ട്രേറ്റ് അസ്പഷ്ടമാണെങ്കിൽ ഉള്ള കാര്യമാണ് അത് ഉദാഹരണത്തിന് എനിക്ക് ഒരു അസ്പഷ്ടമായ സബ്സ്ട്രേറ്റ് ഉണ്ടെന്നു വിചാരിക്കുക ഇതുപോലെ ഞാൻ അതിനുമുകളിൽ കോശങ്ങളെ വച്ചു ഇത് ഒരു ടിഷ്യു എൻജിനീയറിങ് ആണ് ഇത് ഒരുതരം ഹൈഡ്രോജെല്ലോ അല്ലെങ്കിൽ ക്രയോജെല്ലോ അല്ലെങ്കിൽ ലോഹമോ അതും അല്ലെങ്കിൽ ഒരു തരം ബയോമെറ്റീരിയലോ ആയിരിക്കും ഞാൻ ഇവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻറെ ബയോകോംപാക്റ്റിബിലിറ്റിയും ഇതിന് മുകളിൽ വച്ചിരിക്കുന്ന കോശങ്ങളെയുമാണ് ഇതിനായി നിങ്ങൾക്ക് ഒരു അപ്രൈറ്റ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കേണ്ടതായി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് അപ്രൈറ്റ് മൈക്രോസ്കോപ്പിനെ കുറിച്ച് സംസാരിക്കാം മൈക്രോസ്കോപ്പ് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം അതിന് ചില പ്രധാന ഭാഗങ്ങൾ ഉണ്ട് അതിന് ഒരു ഐപീസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് വെളിച്ചം വരാൻ വേണ്ടി ഉള്ള സംവിധാനവുമുണ്ട് നിങ്ങൾക്ക് വെളിച്ചം വരാനുള്ള ഒരു സ്രോതസ്സ് ഉണ്ട് ഇതൊക്കെയും പിന്നെ ഒരു കൂട്ടം ലെൻസും ഉണ്ടാകും പക്ഷേ നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ നോക്കുന്നത് ഐപീസിലൂടെ ആയിരിക്കും ഇനി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ രണ്ടെണ്ണം ഉണ്ട് അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണത്തിന് നിങ്ങളുടെ സാമ്പിൾ ഇവിടെയാണ് ഇവിടെ വെളിച്ചം മുകളിൽനിന്നോ അരികിൽ നിന്നോ അല്ലെങ്കിൽ താഴെ നിന്നോ വരാം ഇതിനെ നോക്കുന്നതിനെ ഞാൻ വേറൊരു രീതിയിൽ വിവരിക്കാം ഇനി ഉദാഹരണത്തിന് ഇതാണ് നിങ്ങളുടെ സബ്സ്ട്രേറ്റ് അതിനെ ഞാൻ മനപ്പൂർവ്വം കട്ടി കൂടുതലായി വെക്കുന്നു കാരണം വെളിച്ചം അപ്പോൾ അതിലൂടെ കടന്നു പോകുന്നില്ല ഇവിടെ നിങ്ങൾക്ക് ഇതിനെ വീക്ഷിക്കാൻ പറ്റുന്നത് വെളിച്ചം മുകളിൽ നിന്ന് വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ വെളിച്ചം മുകളിൽനിന്ന് കടത്തി വിടേണ്ടത് ആണ് കോശങ്ങൾ ഇതിന് മുകളിൽ കാണുന്നു ഇതിനു നിങ്ങൾക്ക് വേണ്ടത് ഒരു അപ്രൈറ്റ് മൈക്രോസ്കോപ്പ് ആണ് അപ്രൈറ്റ് മൈക്രോസ്കോപ്പ് എന്നാൽ ഇതിലെ ഒബ്ജക്റ്റീവ് മുകളിൽ നിന്നാണ് വരുന്നത് അതായത് നിങ്ങൾ നോക്കുന്നതും മുകളിൽ നിന്നാണ് ഒബ്ജക്റ്റീവ് വരുന്നതും മുകളിൽ നിന്നാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇതിൻറെ വർക്കിംഗ് ഡിസ്റ്റൻസ് അതായത് സാമ്പിളിലേക്കുള്ള ദൂരം ഇവിടെ നോക്കൂ സാമ്പിളും ഒബ്ജക്റ്റീവ് ടിപ്പും തമ്മിലുള്ള ദൂരം ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസ് ഇവിടെയാണ് നിങ്ങൾ സാമ്പിൾ വയ്ക്കുന്നത് എന്നിട്ട് ഈ ദൂരം ആണ് ആ ദൂരം ഞാൻ അതിനെ l എന്ന് അടയാളപ്പെടുത്തുന്നു ഈ വർക്കിംഗ് ഡിസ്റ്റൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടത് ആകുന്നത് അതിനു കാരണം മിക്ക മൈക്രോസ്കോപ്പിനും ചെറിയ വർക്കിംഗ് ഡിസ്റ്റൻസ് ആണ് ഉണ്ടാവുക അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ l എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഞാനിതാ ആവരണം ചെയ്യുന്നു ഈ ദൂരം നിങ്ങൾ l ആയി കാണുന്നു ഇവിടെ l വളരെ ചെറുതാണെങ്കിൽ മൈക്രോസ്കോപ്പിൻറെ ഒബ്ജക്റ്റീവ് സാമ്പിളിൻറെ അടുത്തേക്ക് വളരെയധികം വരേണ്ടിവരും നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു t 20 ഫ്ലാസ്ക് ഉണ്ട് ഈ ഫ്ലാസ്കിൽ നമ്മൾ കോശങ്ങളെ കൾച്ചർ ചെയ്തിരിക്കുന്നു അത് സ്വന്തമായി തന്നെ ഒരു 3D സാധനമാണ് ഇപ്പോൾ നിങ്ങടെ കോശങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ഓർക്കുക നിങ്ങൾക്ക് ഒരു അപ്രൈറ്റ് മൈക്രോസ്കോപ്പ് ഉണ്ട് എന്നിട്ട് ഇതിനെയാണ് ഞാൻ വർക്കിംഗ് ഡിസ്റ്റൻസ് എന്നുപറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്നതിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് t 20 ഫ്ലാസ്ക് ആണ് ഞാൻ ഇതിലേക്ക് കൂടുതൽ വരാം നിങ്ങൾക്ക് എന്തായാലും അപ്രൈറ്റ് ഇക്കാര്യത്തിൽ ആവശ്യമുണ്ടാവില്ല ഇവിടെ സബ്സ്ട്രേറ്റ് അസ്പഷ്ടമായതാണ് അതുകൊണ്ട് വെളിച്ചത്തിന് താഴെ നിന്ന് വരാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വെളിച്ചം മുകളിൽനിന്ന് അല്ലാതെ അടിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് അപ്രൈറ്റ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കേണ്ടിവരും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ അവിടെ ലോങ്ങ് ഡിസ്റ്റൻസ് ഒബ്ജക്റ്റീവ് ഉറപ്പാക്കണം അതായത് ദൂരം കൂടുതലായിരിക്കണം ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ സാമ്പിൾ എങ്കിൽ ഒബ്ജക്റ്റീവ് ഇവിടെ ആയിരിക്കണം എന്നാലേ നിങ്ങൾക്ക് കാണാൻ പറ്റു ഒരിക്കലും ഒരു മൈക്രോസ്കോപ്പ് വിൽക്കാൻ വരുന്ന ആൾ ഇതൊന്നും പറഞ്ഞു തരില്ല അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം പക്ഷേ നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു തരില്ല നിങ്ങൾ അവരോട് പറയുക ഇതുപോലെത്തെ സാധനം ആണ് എനിക്ക് ഇതിലൂടെ നോക്കാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി ഇതിൻറെ മാർഗ്ഗം കണ്ടുപിടിക്കുക കാരണം ഇത് സ്ഥിരമായി വരുന്ന ഒരു പ്രശ്നമായി ഞാൻ കാണുന്നു എന്നു മുതൽ പരീക്ഷണശാലകൾ സ്ഥാപിച്ചുവോ അന്നുമുതൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ശ്രദ്ധ കുറവ് തന്നെ വലിയൊരു നഷ്ടത്തിലേക്ക് നയിക്കും പിന്നെ നമ്മൾ ചിന്തിക്കും ഞാൻ എന്തിനാണ് ഇത് ഇങ്ങനെ ചെയ്തത് നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്താൽ പോരായിരുന്നോ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ സാമ്പിൾ അങ്ങനെയല്ല എന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാർഗം ഉണ്ട് നിങ്ങൾ ഇപ്പോൾ പ്ലേറ്റ് ചെയ്യുന്ന പ്രതലം രശ്മിപാരകമായതാണെങ്കിൽ വെളിച്ചത്തിന് മുന്നോട്ടും പുറകോട്ടും പോകാൻ കഴിയും ഇവിടെ നിങ്ങൾക്ക് ഒബ്ജക്ടീവ് താഴേന്നു വരുന്നത് ഉപയോഗിക്കാൻ പറ്റും ഒബ്ജക്റ്റീവിന് ഇതിൻറെ അടിഭാഗത്ത് തൊടാനും സാധിക്കും അതിന് സാമ്പിളും ആയി ഒരു ബന്ധവും ഇല്ല അതുകൊണ്ട് ഇത് സഹായിക്കുകയും ഇല്ല ഉദാഹരണത്തിന് ഇതാണ് നിങ്ങളുടെ ഡിഷ് ഇതിനുള്ളിൽ നിങ്ങൾ കോശങ്ങളെ വളർത്തുന്നു അതിനുവേണ്ടി നിങ്ങൾ മീഡിയ ഉപയോഗിക്കുന്നു അതുകാരണം മൈക്രോസ്കോപ്പ് എപ്പോഴും അതിൻറെ അടിയിൽ തട്ടും മൈക്രോസ്കോപ്പ് അടിയിൽ തട്ടേണ്ട ആവശ്യം ഉണ്ട് കാരണം ഇത് ഒരു ഒരു പ്ലാസ്റ്റിക് ആണ് അതായത് ഇതിലൂടെ നിങ്ങൾക്ക് വെളിച്ചത്തെ ഈ വഴിയിലൂടെ കടത്തി വിടാൻ പറ്റും അതിലൂടെ നിങ്ങൾക്ക് ഇതിലൂടെ ദർശിക്കാനും പറ്റും അപ്പോൾ ഇങ്ങനത്തെ അവസരത്തിൽ നിങ്ങൾക്ക് തലതിരിഞ്ഞ യന്ത്രസാമഗ്രികൾ ആണ് ഉള്ളത് ഇവിടെ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് താഴെ ആണുള്ളത് ഇൻവെർട്ടഡ് മൈക്രോസ്കോപ്പിൽ ഒബ്ജക്റ്റീവ് താഴെയാണ് വരുന്നത് അവിടെ നിങ്ങൾക്ക് വർക്കിംഗ് ഡിസ്റ്റൻസിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ഇത് വളരെ അടുത്തു തന്നെ വരികയും ചെയ്യും ഇത് രശ്മിപാരകം ആയാൽ ഇവിടെ ഇത് അസ്പഷ്ടമായതോ അർദ്ധസുതാര്യം ആയതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്കുള്ള മാർഗങ്ങൾ വളരെ സ്പഷ്ടമാണ് വേറൊരു ആകർഷണീയമായ ഭാഗം എന്താണെന്നുവെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു അപ്രൈറ്റ് മൈക്രോസ്കോപ്പിനെ ഒരു ഇൻവെർട്ടഡ് മൈക്രോസ്കോപ്പ് ആയി മാറ്റാൻ സാധിക്കില്ല ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ രണ്ട് സാമ്പിൾ ആണ് ഉള്ളത് ഒരെണ്ണം ഉദാഹരണത്തിന് ഒരു ബയോമെറ്റീരിയൽ വെച്ച് ആവരണം ചെയ്തിരിക്കുന്നു അത് കാരണം അത് അസ്പഷ്ടമാണ് ഇത് കാരണം നിങ്ങൾക്ക് അവിടെ ഒരു ലോങ്ങ് ഡിസ്റ്റൻസ് വരുന്ന അപ്രൈറ്റ് മൈക്രോസ്കോപ്പിനെ ഉപയോഗിക്കേണ്ടിവരും അതേസമയം രശ്മീപാരകം ആയ അടുത്ത സാമ്പിളിൽ നിങ്ങൾക്ക് അപ്രൈറ്റ് മൈക്രോസ്കോപ്പിനെ ഉപയോഗിക്കാം പക്ഷെ അതിൽ ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ട് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനത്തെ അവസരങ്ങളിൽ നിങ്ങൾക്ക് ഇൻവെർട്ടഡ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാം ഇതിൽ ഉള്ള മറ്റൊരു പ്രശ്നം എന്താണെന്ന് വച്ചാൽ ഇതൊന്നും ഈ മൈക്രോസ്കോപ്പ് വിൽക്കാൻ വരുന്നവർ നമ്മളോട് പറയില്ല നമ്മൾ അത് അവരോട് ചോദിക്കണം ഈ ഒബ്ജക്ടീവ് സ്ഫടികതത്തിന് വേണ്ടി ഉള്ളതാണോ അതോ പ്ലാസ്റ്റിക്കിന് വേണ്ടിയുള്ളതാണോ എന്നുള്ളത് നിങ്ങൾ ഒബ്ജക്റ്റീവ് ലെൻസ് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു സംഖ്യ കാണാനാകും അതിൽ n ഇനു തുല്യം ഒരു സംഖ്യ കാണാനാകും ഞാനിപ്പോൾ മൈക്രോസ്കോപ്പിനെ സൂക്ഷ്മമായി വിശദീകരിക്കുകയാണ് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ സാമ്പിൾ ഒരു സ്പടിക ഡിഷിൽ ആണ് ഇരിക്കുന്നത് എന്ന് കരുതുക സ്ഫടികതത്തിന് പല രീതിയിലുള്ള കട്ടിയും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിയും ഉണ്ടാകും അതേസമയം പ്ലാസ്റ്റിക് ആണെങ്കിൽ പോളികാർബണേറ്റ് വെച്ച് ഉണ്ടാക്കിയതാണ് അതിൽ t a t ഒക്കെ അതുകൊണ്ട് ഓരോ ഡിഷിനും അതിൻറെതായ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ഉണ്ട് അത് കാരണം നിങ്ങൾക്ക് ഓരോ സാധനങ്ങൾക്കും പല പല കട്ടിയുണ്ട് ഇതിനാൽ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം ഒബ്ജക്ടീവ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾ പലപ്രാവശ്യവും ഒബ്ജക്ടീവ് വാങ്ങിക്കുമ്പോൾ തെറ്റായിട്ട് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുകയില്ല ഇല്ല മൈക്രോസ്കോപ്പ് നല്ലതായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഒന്നും വ്യക്തമായി കാണാൻ സാധിക്കുകയില്ല നിങ്ങടെ പാഠപുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഈ അറിവ് കിട്ടുകയില്ല ഇതെല്ലാം പരിശീലനത്തിലൂടെ കിട്ടുന്ന അറിവുകൾ ആണ് അതുകൊണ്ട് ഒരു മൈക്രോസ്കോപ്പ് വാങ്ങാനായി പണം നിക്ഷേപിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം ഒരു നല്ല മൈക്രോസ്കോപ്പ് ആണെങ്കിൽ വളരെയധികം വില ആകുന്നതാണ് അപ്പോൾ ഞാൻ ഈ പാഠം ഇവിടെ നിർത്തുകയാണ് ബാക്കി നമുക്ക് അടുത്ത ഭാഗത്തിൽ നോക്കാം അവിടെ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളും കൂടെ ഒരു സെൽ കൾച്ചർ സംവിധാനം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറച്ച് പറയാം